കീവേർഡ് നിയന്ത്രണം സമ്മർദ്ദം വിഭജനം പ്രോസസ്സിംഗ് ലോജിക് നിയന്ത്രിക്കുക അതിനാൽ ഇത് കാസ്കേഡ് നിയന്ത്രണമാണ് വളരെ സാധാരണമാണ് മിക്ക കേസുകളിലും വളരെ താങ്ങാനാവുന്ന ചെലവുകളേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നൽകുന്നു അതിനാൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഇപ്പോൾ ഞങ്ങൾ സെലക്ടീവ് ഓവർറൈഡ് സ്പ്ലിറ്റ് റേഞ്ച് കൺട്രോൾ എന്നിങ്ങനെയുള്ള മറ്റ് ചില നിയന്ത്രണ ഘടനകളെ നോക്കുന്നു അതിനാൽ ആദ്യം സെലക്ടീവ് നിയന്ത്രണം ഉപയോഗിച്ച് ആരംഭിക്കുക അതിനാൽ ഇവിടെ ഒരേയൊരു മാറ്റം വരുന്നുഒരേ സെൻസർ മൂല്യങ്ങൾ പോലെ അതേ പ്രോസസ്സ് മൂല്യങ്ങൾ നൽകപ്പെടുന്നു ഉദാഹരണത്തിന് റൂം താപനില മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൂന്ന് വ്യത്യസ്ത സെൻസറുകളാൽ ടാപ്പ് ചെയ്യപ്പെടുന്നു അതിനാൽ ഈ സിഗ്നലുകൾ സമാനമല്ല പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി സിഗ്നൽ പ്രോസസ്സിംഗ് സ്കീം ഉണ്ട് എന്ത് സിഗ്നൽ പ്രോസസ്സിംഗ് സ്കീം ബാധകമാകും എന്നത് ഞങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് ഈ മുറിയുടെ മൊത്തത്തിലുള്ള താപനില നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുതരം ശരാശരി നമ്മൾ ചേർക്കണം തുടർന്ന് നമ്മൾഎടുക്കണം അതായത് ഒരു ശരാശരി മൂല്യം എടുക്കുക ഈ പ്രക്രിയ തിരഞ്ഞെടുക്കരുത് മറിച്ച് ശരാശരി എടുക്കണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ മുറിയുടെ ഒരു കോണിലും താപനില 25 0C യിൽ കൂടുതലാകില്ലെന്ന് ഉറപ്പാക്കണമെങ്കിൽ എന്നിട്ട് ഈ മൂന്നിലെ ഏറ്റവും ഉയർന്ന താപനില എടുത്ത് അത് നിയന്ത്രിക്കാൻ ശ്രമിക്കണം അതിനാൽ മുറിയുടെ ഓരോ ഘട്ടത്തിലും താപനില ഈ സെറ്റിനേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ സെറ്റ് താപനിലയേക്കാൾ കുറവായിരിക്കും അതിനാൽ റൂം കൂളിംഗിന്റെ കാര്യത്തിൽ അതാണ് കേസ് അതിനാൽ നിങ്ങൾക്ക് പരമാവധി മൂല്യം തിരഞ്ഞെടുക്കാൻ കഴിയും മറ്റ് പ്രയോഗങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ചിലപ്പോൾ ഫീഡ്ബാക്ക് നിയന്ത്രണ ലൂപ്പുകളിൽ സെൻസറുകളിൽ ഒന്ന് പ്രവർത്തനനിരത ആയാൽ വളരെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഒരു സെൻസർ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു ചില ഇലക്ട്രോണിക് സർക്യൂട്ട് കത്തുന്നതു കാരണം അഥവാ ചില വയർ കീറി സെൻസർ പരാജയപ്പെട്ടു എങ്കിൽ ഉടനെ ഈ സിഗ്നൽ 0 ആയി പോകുന്നു പിന്നെ എന്ത് സംഭവിക്കും ഇത് കൺട്രോളറിന് അറിയാൻ ഒരു മാർഗവുമില്ല മാത്രമല്ല ഇത് ഒരു പിശക് കാണുകയും ചെയ്യും അതിനാൽ ഇത് അനാവശ്യമായി പ്രോസസ്സ് ഓടിക്കാൻ ശ്രമിക്കും പക്ഷേ ഡ്രൈവിംഗ് ചെയ്യില്ല കാരണം സെൻസർ പരാജയം മൂലമുള്ള കണ്ട്രോൾ ആണ് ഈ കണ്ട്രോൾ മൂല്യം മെച്ചപ്പെടുത്തില്ല അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ വ്യാവസായിക അപകടങ്ങൾക്ക് കാരണമായേക്കാം ഉപകരണങ്ങൾ കേടായേക്കാം അതിനാൽ ആളുകൾ പലപ്പോഴും ചെയ്യുന്നത് അതാണ് അവർ എസ് 1 എസ് 2 S1 S2എടുക്കുന്നു അവർ മൂന്ന് സെൻസറുകൾ ഇടും ഒരേ വേരിയബിൾ മനസ്സിലാക്കാൻ അവർ ഒരു വോട്ടിംഗ് ലോജിക്ക് ഇടും അതായത് മൂന്ന് സെൻസറുകളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സാധാരണ അവ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ വായന വളരെ അടുത്തായിരിക്കും ഏതെങ്കിലും സെൻസർ റീഡിംഗുകൾ ഗണ്യമായി അകന്നുപോയാൽ അതിൽ തകരാറു സംഭവിച്ചേക്കാം അതിനാൽ രണ്ട് സെൻസർ റീഡിംഗുകൾ ഇവിടെയുണ്ട് മൂന്നാമത്തേത് ഇവിടെയുണ്ട് മൂന്നാമത്തേത് തെറ്റായിരിക്കാം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ മൂന്നാമത്തേത് മൂല്യം നിയന്ത്രണത്തിൽ ഉപയോഗിക്കില്ല അതിനാൽ ഇത് കട്ട് ചെയ്യും ഇവ രണ്ടിന്റെ ശരാശരി മാത്രമേ ഉപയോഗിക്കൂ ഇതിനെ ട്രിപ്പിൾ സെൻസർ വോട്ടിംഗ് ട്രിപ്പിൾ സെൻസർ വോട്ടിംഗ് എന്ന് വിളിക്കുന്നു കൂടാതെ ക്രിട്ടിക്കൽ കൺട്രോൾ ലൂപ്പുകൾ പലതവണ ഇത്പ്രയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പരിധിവരെ സെൻസർ തെറ്റ് സഹിഷ്ണുത നേടാൻ കഴിയും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സെൻസർ സെലക്ടീവ് നിയന്ത്രണം ഉപയോഗിക്കാം അടിസ്ഥാനപരമായി നിങ്ങൾക്ക് മീഡിയൻ ഫിൽട്ടറിംഗ് ചെയ്യാൻ കഴിയുന്നിടത്ത് നിങ്ങൾക്ക് out ട്ട്ലിയർമാരെ തിരഞ്ഞെടുക്കാനാകും പെട്ടെന്ന് ഒരു സെൻസറിന് ഒരു വലിയ ശബ്ദം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും മധ്യമൂല്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക്ശബ്ദം നന്നായി നിരസിക്കാൻ കഴിയും അതിനാൽ വിവിധ തരം ഫിൽട്ടറിംഗ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാം കുറഞ്ഞ പരമാവധി മൂല്യങ്ങൾ അല്ലെങ്കിൽ ശരാശരി മൂല്യങ്ങൾ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ് മൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള ഫീഡ്ബാക്ക് തിരഞ്ഞെടുക്കൽ അതുപോലെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിവിധ ആപ്ലിക്കേഷനുകളെ ആശ്രയിച്ച് ഉള്ള സെലക്ടീവ് നിയന്ത്രണം വളരെ സാമാന്യബുദ്ധി സമീപനം ഇതൊക്കെ പരാജയങ്ങൾ നിയന്ത്രണം അസാധുവാക്കൽ എന്നിവയിൽ നിന്ന് കാര്യമായ പരിരക്ഷണം നൽകാം ഒരേ സിസ്റ്റം രണ്ട് വ്യത്യസ്ത മോഡുകൾ അല്ലെങ്കിൽ തത്ത്വചിന്തകളെ അടിസ്ഥാനമാക്കിപ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു if then else യുക്തി പോലെയാണ് ഇത് സംഭവിക്കുന്നിടത്തോളം കാലം അടിസ്ഥാനപരമായി ഈ നിയന്ത്രണ ലൂപ്പ് ഒരു തരം സൂപ്പർവൈസറി ഘടനയാണ്

സിസ്റ്റം ഓപ്പറേറ്റ് ആവശ്യപ്പെടുന്ന മോഡ് അനുസരിച്ച് actuator ഡ്രൈവ് ചെയ്യുവാൻ രണ്ടു സെൻസറുകളിൽ ഏതു ഉപയോഗിക്കണമെന്ന് നിശ്ചയിക്കും ഒരു സാമാന്യബുദ്ധി ഉദാഹരണമായി ഇവിടെ നിങ്ങൾക്ക് ഒരു ബോയിലർ പോലെയുള്ള ചിലത് ഉണ്ട് അവിടെ നിങ്ങൾക്ക് feed വെള്ളം ലഭിക്കുന്നു നിങ്ങൾക്ക് ചൂട് ഇൻപുട്ട് ഉണ്ട് അതിനാൽ ഇത് ഉത്പാദിപ്പിക്കുന്നത് നീരാവി എന്ന് പറയട്ടെ അതിനാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നീരാവി ഉത്പാദിപ്പിക്കുന്നു നിങ്ങൾക്ക് വെള്ളമുണ്ട് അതിനാൽ ഒരു ജലനിരപ്പ് ഉണ്ട് നീരാവി പുറത്തുപോയി ചില ഉദ്ദേശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഒരുപക്ഷേ ഇത് ഒരു സ്റ്റീം പ്ലാന്റായിരിക്കാം മറ്റൊന്നിനായി മുഴുവൻ ഫാക്ടറിയിലും നിരവധി കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചൂടാക്കുന്നതിന് മറ്റ് നിരവധി ആവശ്യങ്ങൾക്കായി നീരാവി ആവശ്യമാണ് ഈ ജലനിരപ്പ് നില താഴേക്ക് വീഴാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല താഴ്ന്ന നിലയിലേക്ക് വീഴുകയാണെങ്കിൽ അത് വളരെ താഴ്ന്ന നിലയിലേക്ക് വീഴുകയാണെങ്കിൽ ഉടൻ തന്നെ ഇത് ഒരു ലെവൽ ലൂപ്പാണ് അത് മുൻഗണന നേടണം മറുവശത്ത് ഇത് സമ്മർദ്ദമാണെങ്കിൽ നീരാവിയിലെ മർദ്ദം ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് പോകരുത് കാരണം അത് അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചോർച്ചയ്ക്ക് കാരണമായേക്കാം അതിനാൽ സമ്മർദ്ദം ഒരു നിശ്ചിത പരിധിക്ക് മുകളിലേക്ക് പോയാൽ അപ്പോൾ മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം മുൻഗണന എടുക്കണം അതിനാൽ നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത നിയന്ത്രണ ലൂപ്പുകളുണ്ട് അവയിൽ ഒന്ന് മുൻഗണന എടുക്കും ഒരു നിശ്ചിത സാഹചര്യത്തിൽ രണ്ട് വേരിയബിളുകളുടെ അവസ്ഥയെ ഇത് ആശ്രയിച്ചിരിക്കുന്നു കാരണം ഇത് ഒരു സംരക്ഷണ പദ്ധതി പോലെയാണ് കാരണം നിയന്ത്രണങ്ങൾ യഥാർത്ഥത്തിൽ ആയിരിക്കും അതിനാൽ നിങ്ങൾക്കറിയാം കോർഡിനേറ്റുകൾ കാരണം എത്ര നീരാവി ഒടുവിൽ ഇവിടെ വരും അതും ഈ കൺട്രോളറിന്റെ പരിധിയിൽ വരില്ല അതുപോലെ തന്നെ എത്രമാത്രം വെള്ളം നൽകാൻ പോകുന്നു എന്നത് ഈ കൺട്രോളറിന്റെ പരിധിയിൽ വരില്ല അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഈ നില കുറയുകയാണെങ്കിൽ താഴ്ന്നാൽ എന്ത് സംഭവിക്കും ഈ വാൽവ് അടയ്ക്കുക എന്നതാണ് ന്യായമായ തന്ത്രം അതിനാൽ നീരാവി പുറത്തുപോകുന്നില്ല അതിനാൽ ലെവൽ ഉയരും ഇവിടെ നിന്ന് നീരാവി പുറത്തേക്കെടുക്യ്ക്കില്ല അതുപോലെ തന്നെ മർദ്ദം വളരെഉയർന്ന പോയാൽ പിന്നെ നമ്മൾ വാൽവ് അടയ്ക്കണം അല്ലാത്തപക്ഷം അത് സമ്മർദ്ദം നിയന്ത്രിക്കും അതിനാൽ ഈ രണ്ട് മോഡുകളെ ആശ്രയിച്ച് വാൽവ് അടയ്ക്കുന്നത് അർത്ഥമാക്കുന്നത് താഴ്ന്ന ഇൻപുട്ട് വാൽവ് തുറക്കുന്നത് എന്നാൽ ഉയർന്ന ഇൻപുട്ട് എന്നാണ് അതിനാൽ ഏതൊരാൾക്കും വാൽവുകൾ അടയ്ക്കേണ്ടതുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കും അതിനാൽ ഇത് അതിനാൽ ഒരു സാഹചര്യത്തിൽ ഒരു നിയന്ത്രണ തന്ത്രം മറ്റൊന്നിനെ മറികടക്കും അതിനാൽ തന്നെ ഇതിനെ ഓവർറൈഡ് എന്ന് വിളിക്കുന്നു

പ്രക്രിയയുടെ മേൽനോട്ടം നടത്തി പ്രക്രിയയുടെ കോൺഫിഗറേഷൻ മാറ്റുന്ന സൂപ്പർവൈസറി നിയന്ത്രണം ആണിത് സ്പ്ലിറ്റ് റേഞ്ച് നിയന്ത്രണം ആദ്യത്തെ ഉദാഹരണം വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ചൂടാക്കലാണ് അതിനാൽ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് ഞങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഇടമാണ് ഒരു താപനില ട്രാൻസ്മിറ്ററും അവിടെ ഒരു താപനില കൺട്രോളറും ഉണ്ട് ഞങ്ങൾക്ക് ഒരു സെറ്റ് താപനിലയുണ്ട് അത് സാധാരണയായി ഒരു ഡയൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ റിമോറ്റുകൾ ഉപയോഗിച്ചോ ആണ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല താപനില ചൂടുവെള്ളത്തെ ബാധിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ വിദേശ രാജ്യങ്ങളിൽ അവർക്കുള്ള മുറികൾ ചൂടാക്കാൻ അവർക്ക് ചൂട് എക്സ്ചേഞ്ചറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മുറിയുടെ വിവിധ കോണുകളിൽ അവ ചൂടുവെള്ളം അയയ്ക്കുന്നു അല്ലെങ്കിൽ എയർ കണ്ടീഷനിംഗ് പോലെ നിങ്ങൾക്ക് തണുത്ത വായു ലഭിക്കും നിങ്ങൾ മുറി ചൂടാക്കണോ അല്ലെങ്കിൽ മുറി തണുപ്പിക്കണോ എന്നത് സെറ്റ് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ആംബിയന്റിനേക്കാൾambient വലുതാണോ അല്ലെങ്കിൽ ആംബിയന്റിനേക്കാൾ കുറവാണോ എന്ന് ആശ്രയിച്ച് ഈ ആക്യുവേറ്റർ സജീവമാക്കുക അതിനാൽ സെറ്റ് താപനില ആ ശ്രേണിയിലെ ആംബിയന്റ് താപനിലയേക്കാൾ വലുതാകുമ്പോൾ നിങ്ങൾ ഈ ആക്യുവേറ്റർ ഉപയോഗിക്കുന്നു അത് ഒരു ചൂടുവെള്ള ആക്യുവേറ്ററാണ് കൂടാതെ സെറ്റ് താപനില ആ ശ്രേണിയിലെ ആംബിയന്റ് താപനിലയേക്കാൾ താഴെയാകുമ്പോൾ നിങ്ങൾ തണുത്ത വായു ആക്യുവേറ്റർ ഉപയോഗിക്കുന്നു അതിനാൽ ഇതിനെ ഒരു വിഭജന ശ്രേണി നിയന്ത്രണം എന്ന് വിളിക്കുന്നു കാരണം ശ്രേണി രണ്ടായി വിഭജിച്ചിരിക്കുന്നു നിയന്ത്രണ മോഡുകൾ അതിനാൽ നിങ്ങൾ അത് കാണും സാധാരണയായി ഇത് ആംബിയന്റ് ടെമ്പറേച്ചർ പോയിന്റാണ് സെറ്റ് താപനില അതിന് മുകളിലാണെങ്കിൽ പിശക് കൂടുന്നതിനനുസരിച്ച് ചൂടുവെള്ള വാൽവുകൾ ക്രമേണ തുറക്കുന്നു അതിനാൽ നിയന്ത്രണ ഇൻപുട്ട് അതായത് താപനിലയെ മാറ്റുന്ന പ്രക്രിയയിലേക്കുള്ള മൊത്തത്തിലുള്ള നിയന്ത്രണ ഇൻപുട്ട് ഈ താപനില പരിധിയിൽ അത് ക്രമേണ ഉയരുകയും പിന്നീട് സ്ഥിരത കൈവരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സെറ്റ് താപനില ആംബിയന്റ് താപനിലയേക്കാൾ താഴെയാകുമ്പോൾ തണുത്ത വാട്ടർ വാൽവ് സ്വഭാവം പിന്തുടരും അത് ഉയരും അതിനാൽ മൊത്തത്തിലുള്ള നിയന്ത്രണ ഇൻപുട്ട് സ്വഭാവം രണ്ട് ശ്രേണികളിലും ഇതുപോലെയാണ് ഈ ശ്രേണിയിൽ നിങ്ങൾ തണുത്ത വാട്ടർ വാൽവ് പ്രവർത്തിപ്പിക്കുന്നു ഈ ശ്രേണിയിൽ നിങ്ങൾ ചൂടുവെള്ളം പ്രവർത്തിപ്പിക്കുന്നു അതിനാൽ ഇതാണ് സ്റ്റാൻഡേർഡ് എച്ച്വിഎസി നിയന്ത്രണം ഇവിടെ മറ്റൊരു ഉദാഹരണം വളരെ സമാനമായ ഒരു റിയാക്ടറിലെ മർദ്ദം നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽറിയാക്ടറിലെ മർദ്ദം ഫീഡ് നിരക്ക് നിയന്ത്രിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഒഴുക്ക് നിരക്ക് നിയന്ത്രിക്കുന്നതിലൂടെയോ സംഭവിക്കാം ശരിയാണ് അതിനാൽ സമ്മർദ്ദത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നിങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങൾ ക്രമേണ തുറക്കുന്നു ക്രമേണ ഉൽപ്പന്ന വാൽവ് തുറക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് ഉൽപ്പന്ന വാൽവ് സ്വഭാവമാണെന്ന് കാണുക കുറച്ച് സമയത്തിന് ശേഷം ഉൽപ്പന്ന വാൽവ് പൂർണ്ണമായും തുറന്നിരിക്കുന്നു അതിനാൽ അത് സാധ്യമല്ല അതിനാൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു അതിനാൽ നിങ്ങൾ ക്രമേണ ഉൽപ്പന്ന വാൽവ് തുറക്കുന്നു ഇപ്പോൾ ഈ ഘട്ടത്തിനുശേഷം ഉൽപ്പന്ന വാൽവ് പൂർണ്ണമായും അടച്ചിരിക്കുന്നതിനാൽ സമ്മർദ്ദത്തെ ബാധിക്കാൻ കഴിയില്ല അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഫീഡ് വാൽവ് അടയ്ക്കാൻ തുടങ്ങുന്നു അതിനാൽ ഫീഡ് വാൽവ് ഇവിടെ പ്രവർത്തിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സവിശേഷത ഈ സമയം നിങ്ങൾ ഉൽപ്പന്ന വാൽവ് തുറക്കുകയും ഈ സമയം നിങ്ങൾ ഫീഡ് വാൽവ് അടയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് സ്പ്ലിറ്റ് റേഞ്ച് നിയന്ത്രണമാണ് അവിടെ നിങ്ങൾ ഒരു സെൻസർ മാത്രമേ നേടിയിട്ടുള്ളൂ എന്നാൽ നിരവധി ആക്യുവേറ്ററുകൾ അതിനാൽ ഞങ്ങൾ ഇതാണ് ഞങ്ങൾ പ്രഭാഷണത്തിന്റെ അവസാനത്തിലെത്തി ഇത്തരത്തിലുള്ള ചില നിഗമനങ്ങളിൽ ആദ്യം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു പ്രക്രിയകളായ മൾട്ടി സെൻസർ മൾട്ടി ആക്യുവേറ്റർ നിയന്ത്രണത്തിന് പലപ്പോഴും സൂപ്പർവൈസറി നിയന്ത്രണ ലോജിക് ആവശ്യമാണ് അതിനാൽ അടിസ്ഥാന നിയന്ത്രണത്തിന് പുറമെ തണുത്ത വാട്ടർ വാൽവ് അഥവാ ചൂടുവെള്ള വാൽവ് പ്രവർത്തനം നിശ്ചയിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് കണ്ട്രോളറായിരിക്കും വീണ്ടും പ്രോസസ്സ് വേരിയബിളുകളെ അടിസ്ഥാനമാക്കി ഏതാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കും ഏത് സെൻസർ സജീവമാകും ഏത് ആക്യുവേറ്റർ സജീവമായിരിക്കും ഏത് കൺട്രോളർ സജീവമായിരിക്കും അതിനാൽ ഇതിനെ സൂപ്പർവൈസറി കൺട്രോൾ ലോജിക് എന്ന് വിളിക്കുന്നു അവയ്ക്ക് പ്രോസസ്സ് പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾക്ക് ഇത് പലപ്പോഴും ആവശ്യമുണ്ട് അതിനാൽ ഇത് ചിലപ്പോൾ ഈ നിയന്ത്രണ ലൂപ്പുകൾ വഴി നേടാനാകും അതിനാൽ ഓപ്പറേറ്റിങ് പോയിന്റ് സെറ്റ് പോയിന്റ് അടിസ്ഥാനമാക്കി പ്രവർത്തന രീതികളും മേൽനോട്ട നിയന്ത്രണം ലോജിക് ഷെഡ്യൂളുകൾ സെൻസറുകൾ actuators ഉപയോഗിക്കാം ഒരു മോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെയധികം മാറുമ്പോൾ PID നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ ബംപ് കുറവ് കൈമാറ്റം പരിഗണിക്കുന്നു അതിനാൽ ഒരു മോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വളരെയധികം ബമ്പുകൾ ഉണ്ടാകരുത് കാരണം ഇത് ചിലപ്പോൾ ആക്യുവേറ്ററുകൾക്കോ പ്ലാന്റുകൾക്കോ നല്ലതല്ല പ്രോസസ്സ് കൺട്രോൾ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് നാം എത്തി സീക്വൻസ് നിയന്ത്രണത്തിന്റെ sequence controlമറ്റൊരു മൊഡ്യൂൾ അടുത്ത ഭാഗത്ത് കാണാം അതിനാൽ ഈ മൊഡ്യൂളിൽ ഞങ്ങൾ എന്താണ് പഠിച്ചത് വ്യാവസായിക പ്രക്രിയകൾക്ക് ചിലപ്പോൾ വളരെ സങ്കീർണ്ണമായ ചലനാത്മകതയുണ്ട് അവയ്ക്ക് ഘട്ടം കാലതാമസമുണ്ട് അവ non ലീനിയർ ആണ് gain മാറും അതിനാൽ സങ്കീർണ്ണത സൃഷ്ടിക്കുന്നു അതേ സമയം പ്രോസസ് ഡൈനാമിക്സ് മന്ദഗതിയിലാണ് അതിനാൽ ചില സമയങ്ങളിൽ ഇത് നല്ലതാണ് വേഗത്തിലുള്ള പ്രക്രിയകൾ നിയന്ത്രിക്കാൻ പ്രയാസമാണ് എന്നാൽ അതേ സമയം ചിലപ്പോഴൊക്കെ അസ്വസ്ഥതകളും മന്ദഗതിയിലാണെന്ന് അറിയുന്നു അവ നേരത്തെ തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ വലിയ പിശകുകൾ ഉണ്ടാവുകയും അസ്വീകാര്യമായ ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും അതിനാൽ സെൻസർ ആക്യുവേറ്റർ നോൺ ലീനിയറിറ്റികൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്ലോ വാൽവുകൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന ആക്യുവേറ്ററുകളിൽ കാര്യമായ non ലീനിയറിറ്റികളുണ്ട് താപനില സെൻസറുകൾക്കും ഫ്ലോ സെൻസറുകൾക്കും non ലീനിയറിറ്റികളുണ്ട് അതിനാൽ അവ കണക്കിലെടുക്കണം സാധാരണഗതിയിൽ ഞാൻ കരുതുന്നത് തൊണ്ണൂറു ശതമാനം കേസുകളും പിഐഡി കൺട്രോളറുകൾ ഉപയോഗിക്കുന്നു ചിലപ്പോൾ ബംപ് കുറഞ്ഞ കൈമാറ്റത്തിനായി ആന്റി വിൻഡ് അപ്പ് ചെയ്യുന്നതിനായി വിവിധ പ്രത്യേക കോൺഫിഗറേഷനുകൾ മുതലായവ ഡെറിവേറ്റീവുകൾ തിരികെ നൽകുന്നതിനുള്ള പ്രത്യേക ഘടനയ്ക്കായി ഞങ്ങൾ കണ്ടതുപോലെ പക്ഷേ സാധാരണയായി കൺട്രോളറുകൾ പിഐഡിയാണ് അവ വളരെ സാധാരണമാണ് കൂടാതെ പിഐഡി കൺട്രോളറുകൾ ട്യൂൺ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്കറിയാമോ കൺട്രോൾ ട്യൂണിംഗ് കൺട്രോളറുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും ഉദാഹരണത്തിന് വിവിധങ്ങളായ ആധുനിക കൺട്രോളറുകൾ ട്യൂണിംഗ് സോഫ്റ്റ്വെയറിന്റെ വളരെ നൂതനമായ സവിശേഷതകളോടെയാണ് വരുന്നത് അതിനാൽ ട്യൂണിംഗ് വളരെ ആവശ്യമാണ് നിങ്ങൾക്ക് കുറച്ച് സമയം ആവശ്യമാണ് നിങ്ങൾക്ക് ചില സൂപ്പർവൈസറി ലോജിക്കുകൾ അറിയാം പ്രകടനം മെച്ചപ്പെടുത്തുക പരാജയങ്ങൾ തടയുക ഡയഗ്നോസ്റ്റിക്സ് നടപ്പിലാക്കുക അതിനാൽ ഇവയും ആവശ്യമാണ് അതുപോലെ ഒന്നിലധികം നിയന്ത്രണ ലൂപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം കൈകാര്യം ചെയ്യുന്നതിനും സൂപ്പർവൈസർ ലോജിക് ഉപയോഗിച്ചേക്കാം ഒടുവിൽ മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിന് ശ്രദ്ധിക്കുന്നതിനായി പലപ്പോഴും വിവിധതരം പ്രത്യേക നിയന്ത്രണ ഘടനകൾ ഉപയോഗിക്കേണ്ടതുണ്ട് പക്ഷേ നല്ല കാര്യം സാധാരണ വ്യാവസായിക പ്രക്രിയകൾക്ക് വർഷങ്ങളുടെ അനുഭവം വളരെ അറിയപ്പെടുന്ന പരിഹാരങ്ങൾ നിലവിലുണ്ട് അതിനാൽ ഒരാൾ വളരെയധികം വിഷമിക്കേണ്ടതില്ല അതിനാൽ അടുത്ത പാഠത്തിൽ നിന്ന് പ്രോസസ്സ് കൺട്രോൾ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് അത് നമ്മെ എത്തിക്കുന്നു ഒരു പാഠ അവലോകനത്തിലേക്ക് വരുന്നു സെലക്ടീവ് ഓവർറൈഡ് സ്പ്ലിറ്റ് റേഞ്ച് എന്നിവയുടെ രൂപത്തിൽ സിംഗിൾ സെൻസർ നിയന്ത്രണം കാസ്കേഡ് നിയന്ത്രണം മൾട്ടി സെൻസർ മൾട്ടി ആക്യുവേറ്റർ നിയന്ത്രണം എന്നിവയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടു ഏതുതരം പ്രക്രിയകൾ Cascade നിയന്ത്രണം ഫലപ്രദമാണ് എന്ന് നോക്കാം വലിയ സ്ഥിരത മാർജിൻ മികച്ച transient പ്രവർത്തനത്തിലേക്ക് വഴിതെളിക്കുന്നു ഒരു പ്രായോഗിക വ്യാവസായിക പ്രക്രിയയ്ക്കായി ഒരു കാസ്കേഡ് നിയന്ത്രണ ലൂപ്പിന്റെ ബ്ലോക്ക് ഡയഗ്രം വളരെ പ്രധാനമാണ് അത് വരയ്ക്കാൻ ഒരാൾക്ക് കഴിയണം അതുപോലെ തന്നെ സെലക്ടീവ് കൺട്രോൾ ലൂപ്പുകളുടെ ബ്ലോക്ക് ഡയഗ്രമുകളും ഓവർറൈഡ് സ്പ്ലിറ്റ് റേഞ്ച് കൺട്രോൾ ലൂപ്പുകൾ എന്നിവ ഉപയോഗപ്രദമായ വ്യായാമങ്ങളാണ് അതിനാൽ വളരെ നന്ദി